അതിനാൽ നമുക്ക് ഈ FE ഫിനിറ്റ് എലമെന്റ് ബൌണ്ടറി ഇന്റഗ്രൽ രീതിയിലേക്ക് കടക്കാം അതിനാൽ ഇത് നമ്മളുടെ 2D വെക്റ്റർ FEM ന്റെ ഒരു ചെറിയ പുനരവലോകനമാണ് നിങ്ങളുടെ സാധാരണ നോട്ട് ബേസ് FEM അല്ല എന്നാൽ 2D വെക്റ്റർ FEM എന്നത് മുമ്പത്തെ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നിങ്ങളുടെ FEM സമീപനത്തിൽ അടിസ്ഥാനപരമായി നാല് ഘട്ടങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നമുക്ക് ഇവിടെ ധാരാളം സമവാക്യങ്ങളുണ്ട് നമുക്ക് ഓരോന്നായി നോക്കാം ആദ്യത്തെ സമവാക്യം നിങ്ങളോട് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ് വരുന്നത് വിദ്യാർത്ഥി മാക്സ്വെല്ലിന്റെ സമവാക്യം Maxwell's equation ഇത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ Maxwell's equation നിന്നാണ് വരുന്നത് അതിനാൽ നിങ്ങൾക്ക് രണ്ട് സമവാക്യങ്ങളുണ്ടെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾ നിങ്ങളുടെ ഒരു വശത്തേക്ക് നീക്കി വീണ്ടും ഒരു ചുറ്റ് എടുക്കുക അതിനാൽ നിങ്ങൾക്ക് ചുരുളിനെ E ബൈ H ഉപയോഗിച്ച് മാറ്റാം ആ സ്ഥിരാങ്കങ്ങളെല്ലാം ആയിമാറും ഞാൻ സ്പേസിനെ ആശ്രയിക്കുന്നില്ല പക്ഷേ എല്ലാം സ്പേസിന്റെ ഒരു ഫംഗ്ഷനാണ് സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷനാണ് H എന്നത് സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷനാണ് അത് സ്പെയ്സിന്റെ ഒരു ഫംഗ്ഷനായിരിക്കാം നമ്മൾ അത് പരിഗണിക്കില്ലെങ്കിലും H തീർച്ചയായും സ്പെയ്സിന്റെ ഫംഗ്ഷനാണ് അതിനാൽ ഈ ഇടത് വശം മുഴുവനായും ഈ ഫങ്ഷണൽ എന്നാണ് ഞാൻ വിളിക്കുന്നത് അനുയോജ്യമായ ലോകത്ത് ഞാൻ ആഗ്രഹിക്കുന്നവയുടെ പട്ടികയിൽ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്നിലെ ഓരോ പോയിന്റിലും കൃത്യമായി സംതൃപ്തനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും അത് സാധ്യമല്ല അതിനാൽ ഞാൻ ഒരു വെയ്റ്റഡ് റെസിഷ്യൽ രീതി ചെയ്യുമെന്ന് പറയുന്നു ഞാൻ കുറച്ച് ടെസ്റ്റിംഗ് ഫംഗ്ഷൻ എടുക്കും ഈ ശേഷിക്കുന്നത് റെസിഡ്യൂവലിന്റെ ശരാശരി ഇതാണ് ഈ ഫംഗ്ഷണലിനൊപ്പം ഈ ടെസ്റ്റിംഗ് ഫംഗ്ഷന്റെ ശരാശരിയാണ് ഞാൻ അർത്ഥമാക്കുന്നത് ഈ ശരാശരി എന്ന് പറയുന്നത് 0 ആയിരിക്കണം ആദ്യ സമവാക്യം ഞാൻ ഒരു ഡെൽറ്റ ഫംഗ്ഷൻ ഇടുകയാണെങ്കിൽ ലളിതമായി ലഭിക്കുമെന്ന് അറിയുക അതിനാൽ അത് സാധ്യമല്ലാത്ത വളരെ കർക്കശമാണെന്ന് ഞാൻ പറയുന്നു അതിനാൽ നമുക്ക് ഇത് പരിമിതമായ പിന്തുണയുള്ള ഒരു ഫംഗ്ഷനാക്കി മാറ്റാം കൂടാതെ നമ്മളുടെ മുമ്പത്തെ ചർച്ചയിൽ ഏത് തരത്തിലുള്ള ഫംഗ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് നമ്മൾ കണ്ടു അത് ഈ വെക്റ്റർ ഫീൽഡുകളായിരുന്നു അത് ഇതുപോലെ കാണപ്പെടുന്നു ശരിയല്ലേ അതിനാൽ കോൺസ്റ്റന്റ് ടാൻജെൻഷ്യൽ കമ്പോനെൻസിന്റെ ഗുണങ്ങൾ ഉണ്ടായിരുന്ന ഉള്ള ആരോസ് ആരോസ് ആരോസ് എല്ലായിടത്തും വിദ്യാർത്ഥി ഒരു അരികിൽ ഒരു അരികിൽ മറ്റേ അറ്റത്തുള്ള ടാൻജൻഷ്യൽ ഘടകം എവിടെയാണ് വിദ്യാർത്ഥി 0 0 ശരി അതിനാൽ ലാഗ്രാഞ്ച് പോളിനോമിയലുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ നമ്മളുടെ വളരെ നല്ല അടിസ്ഥാന ഫംഗ്ഷനായിരുന്നു അവ അതിനാൽ ഇത് നമ്മൾ ഓർക്കുന്നു ഇത് സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 വിന് നമ്മൾ ഈ കക്ഷിയെ ഈ കക്ഷിയിലേക്ക് പ്ലഗ് ചെയ്യുകയും കുറച്ച് വെക്റ്റർ കാൽക്കുലസ് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇത് വെറും പുനരവലോകനം മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന ഈ സമവാക്യം വലുതായി കാണപ്പെടുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് വളരെ എളുപ്പമാണ് നമ്മൾ ഇതിനെ FEM ദുർബലമായ രൂപമെന്ന് വിളിക്കുന്നു അതിനാൽ ഏകദേശ കണക്കുകളൊന്നും നടത്താത്ത ബൌണ്ടറി കണ്ടിഷൻസ് പ്രയോഗിച്ചിട്ടില്ലാത്ത പോയിന്റാണിത് അതിനാൽ നിങ്ങൾക്ക് ഇടത് വശം പൂർണ്ണമായും ബൌണ്ടറിയിൽ അധിഷ്ടിതമാണ് അതിനാൽ ഇതാണ് നിങ്ങളുടെ കമ്പ്യൂട്ടേഷണൽ ഡൊമെയ്ൻ ക്യാപിറ്റൽ ഒമേഗ ബൌണ്ടറി ഗാമ ആണ് അതിനാൽ അവിടെയാണ് നിങ്ങളുടെ ക്യാപിറ്റൽ ഒമേഗയും ഗാമയും ശരിയാകുന്നത് അതിനാൽ ഇത് കൃത്യമായ ബൌണ്ടറി കണ്ടിഷൻസ് അല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതാണ് പുറപ്പെടുന്ന പോയന്റ് ഇവിടെനിന്നാണ് നമ്മൾ പുറപ്പെടുന്നത് എന്നാൽ നിങ്ങളുടെ ഓർമ്മ ഒന്നു പുതുക്കാൻ അബ്സോർബിങ് ബൌണ്ടറി കണ്ടിഷൻ പ്രയോഗിക്കാൻ നമ്മൾ എന്താണ് ചെയ്തത് നമ്മൾ ഇത് ശരിയായി ചെയ്തു നമ്മൾ പറയുന്നു ഇത് ഒരു പ്ലെയിൻ തരംഗത്തിന് വേണ്ടി നമ്മൾ ഉരുത്തിരിച്ചെടുത്തതാണ് അത് അത് കൃത്യമായി തുല്യമായിരുന്നു അതിനാൽ നമ്മൾ പറഞ്ഞ ബൌണ്ടറിയിലെ ഏത് ദിശയിലും പോകുന്ന ഒരു പ്ലെയിൻ തിരമാലക്ക് ഇത് ശരിയായിരിക്കും നമ്മൾ പറഞ്ഞു നാം ഉടനീളം നടപ്പാക്കാൻ പോവുകയാണെന്ന് ദിശയിൽ ശരിയല്ലേ അതിനാൽ ബാഹ്യമായ സാധാരണമാണ് അതിനാൽ ഏത് പ്ലെയിനും ഈ ബന്ധം ശരിയാണെങ്കിൽ എന്നാൽ പൊതുവെ അതിർത്തിയിൽ അടിക്കുന്ന തരംഗങ്ങൾ ബൌണ്ടറിയിൽ മാത്രം ഉണ്ടാകാൻ പോകുന്നില്ല അവ ഏത് ദിശയിലും ആയിരിക്കും അതിനാൽ ഇത് കൃത്യമായി ഏകദേശമായി കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ഈ വ്യവസ്ഥ ചിതറിക്കിടക്കുന്ന ഫീൽഡിന് മാത്രമേ ബാധകമാകൂ എന്ന് നമ്മൾ പറയന്നു അല്ലാതെ മുഴുവൻ ഫീൽഡിനും അല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതുന്നത് അതിനാൽ സമവാക്യം 3 ന്റെ വലതുവശത്ത് ഞാൻ ഇത് എഴുതും ഞാൻ ഇത് മാറ്റിവയ്ക്കും അതിനാൽ അത് എന്റെ പൂജ്യമല്ലാത്ത വലതുഭാഗവും FEM മൊഡ്യൂളിൽ നമ്മൾ ഇതിനകം കണ്ട ബാക്കിയുള്ളവയും നൽകുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ നോക്കാം അതിനാൽ എന്റെ വസ്തു ഇവിടെയുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കുറച്ച് വായു ഉണ്ടായിരിക്കണം അപ്പോൾ ഈ പ്രശ്നത്തിൽ എത്ര അജ്ഞാതമായത് ഉണ്ട് ഈ പ്രശ്നത്തിൽ അജ്ഞാതമായതിന്റെ എണ്ണം എത്രയാണ് എത്ര ത്രികോണങ്ങൾ ഞാൻ അർത്ഥമാക്കുന്നത് അത്രയും ഘടകങ്ങൾ ആണോ വിദ്യാർത്ഥി അത്രയും അരികുകൾ അത്രയും അരികുകൾ ഡൊമെയ്നിന്റെ ത്രികോണാകൃതിയിലുള്ള അരികുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും അജ്ഞാത ഫീൽഡുകൾ എങ്ങനെയാണ് പ്രകടിപ്പിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഞാൻ അർത്ഥമാക്കുന്നത് നിങ്ങൾ അത് ആയി എഴുതും കൂടാതെ ആയിരുന്നു എന്റെ അറിയുന്ന വെക്റ്റർ ഫീൽഡ് us ആയിരുന്നു അജ്ഞാതമായ ഞാൻ നിർണ്ണയിക്കാൻ ആഗ്രഹിച്ചത് കൂടാതെ ഈ വിറ്റ്നി ഘടകങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ T കൾ ആദ്യത്തെ നിരയായി മാറും ഇവയ്ക്ക് അവയുടെ അരികുകളിൽ യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ടാൻജൻഷ്യൽ ഘടകം ഉണ്ടായിരുന്നു അതിനാൽ അതിനെ ഞാൻ അറിയാത്ത കൊണ്ട് ഗുണിക്കുന്നു ടാൻജൻഷ്യൽ ഫീൽഡിന്റെ വ്യാപ്തി എന്താണെന്ന് അത് എന്നോട് പറയുന്നു അതിനാൽ ഇത് ടാൻജൻഷ്യൽ ഫീൽഡുകളുടെ വ്യാപ്തിയാണ് വിദ്യാർത്ഥി ശരി അതിനാൽ ദൂരെ ഞങ്ങൾ സമയം കാണുക 0644 ഇതുവരെ ഞാൻ ഇതിനെ വോളിയം ഇന്റഗ്രൽ എന്ന് വിളിക്കില്ല കാരണം ഇവിടെ ഇന്റഗ്രൽ സമവാക്യം ഇല്ല പക്ഷേ ഇതാണ് വോളിയം ഡിസ്ക്രെറ്റൈസേഷൻ ഇത് ഒരു വോളിയം ഡിസ്ക്രിറ്റൈസേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത് 1 മുതൽ 4 വരെയുള്ള ഘട്ടം സ്റ്റാൻഡേർഡ് FEM സ്റ്റാൻഡേർഡും ABC യുള്ള സ്റ്റാൻഡേർഡ് FEM ആണ് അതിനാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ ഘട്ടം 4 ലേക്ക് പോകില്ല നമ്മൾ ഘട്ടം 3 ൽ നിർത്തും കൂടാതെ ഇതിനെ എങ്ങനെ ബൌണ്ടറി ഇന്റഗ്രേളുഗ്രലുമായി യോജിപ്പിക്കാമെന്ന് നോക്കാം ഇപ്പോൾ അരികുകളുടെ എണ്ണം ശരിയാണെങ്കിൽ അടിസ്ഥാനപരമായി അജ്ഞാതമായിട്ടുള്ളതിന്റെ എണ്ണം അരികുകളുടെ എണ്ണമാണ് അതിനാൽ ഞാൻ ഇതിനെ രണ്ട് വ്യത്യസ്ത ഘടകങ്ങളായി വിഭജിക്കാൻ പോകുന്നു ഒന്ന് ഇന്റീരിയർ അരികുകളുടെ എണ്ണവും അതിർത്തി അരികുകളുടെ എണ്ണവുമാണ് അതിനാൽ ഞാൻ പറയാൻ പോകുന്നത് n എന്നത് ഇന്റീരിയർ അരികുകളുടെ എണ്ണവും m എന്നത് അതിർത്തി അരികുകളുടെ എണ്ണവുമാണ് അപ്പോൾ എന്റെ സ്പാർസ് സിസ്റ്റം എന്റെ സമവാക്യങ്ങളുടെ സിസ്റ്റം സമവാക്യങ്ങളുടെ വലിപ്പം എന്താണ് എന്റെ Axb A യുടെ വലിപ്പം എന്താണ് ഇവയെല്ലാം ഉപയോഗിച്ച് ഞാൻ സമവാക്യങ്ങളുടെ ഒരു സിസ്റ്റം രൂപപ്പെടുത്തുമ്പോൾ എന്റെ സിസ്റ്റം എന്താണ് സിസ്റ്റം സമവാക്യങ്ങളുടെ വലുപ്പം എത്രയാണ് nmnm മാട്രിക്സിന്റെ വലുപ്പം അതിനാൽ നിങ്ങളുടെ FEM പുനരവലോകനത്തെ സംബന്ധിച്ചിടത്തോളം ഇതാണ് ഇപ്പോൾ രണ്ടാം ഭാഗം ഞാൻ അർത്ഥമാക്കുന്നത് ശീർഷകം നോക്കുക അത് പരിമിതമായ ഘടകവും ബൌണ്ടറി ഇന്റെഗ്രേലുമാണ് അതിനാൽ ബൌണ്ടറി ഇന്റഗ്രൽ ഭാഗം ശരിയാക്കുന്നത് എന്താണെന്ന് നമുക്ക് അടുത്തതായി കാണാം ഇത് നിങ്ങൾ ഇതിനകം കണ്ടിട്ടുള്ള കാര്യമാണ് പക്ഷേ ഒരു പുനരവലോകനം മാത്രം നിങ്ങൾ ഇവിടെ കാണുന്ന ഈ രണ്ട് സമവാക്യങ്ങളും നിങ്ങളുടെ പരിചിതമായ എക്സ്റ്റിൻഷൻ തിയറം ആണ് അതിനാൽ നമ്മൾക്ക് ഉണ്ടായിരുന്ന പ്രശ്നം എന്തായിരുന്നു ഇതായിരുന്നു എന്റെ ഇതായിരുന്നു എന്റെ അതിൽ ചില ഗ്രീനിന്റെ പ്രവർത്തനവും Green's function കൂടാതെ ഗ്രീനിന്റെ പ്രവർത്തനവും Green's function ശരിയല്ലേ നിലവിലെ ആവേശകരമായ ഉറവിടം വോളിയം 1ൽ ആയിരുന്നു അതുകൊണ്ടാണ് ഇവിടെ ഒരു ഇൻസിഡന്റ് ഫീൽഡ് ടേം ഉള്ളത് പക്ഷേ ഇവിടെ ഇല്ല അതിനാൽ ഇത് നിങ്ങൾക്കുള്ള ഒരു പുനരവലോകനം മാത്രമാണെന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ ഇവിടെ വീണ്ടും വേരിയബിളുകൾ എന്തായിരുന്നു ഇതാണ് TM ധ്രുവീകരണം അതിനാൽ TM എന്നത് ശരിയാണ് അതാണ് എന്റെ TM അതിനാൽ ഒരു സ്കെയിലർ ആണ് അതിനാൽ നിങ്ങളുടെ ഇവിടെയും ഇവിടെയും സമാനമായി ഇവിടെയും ഇവിടെയും പ്രത്യക്ഷപ്പെടുന്നു അതിനാൽ ഇപ്പോൾ ഈ ബൌണ്ടറി ഇന്റഗ്രൽ സമവാക്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ചർച്ച ചെയ്ത വെല്ലുവിളി അത് നല്ലതാണ് കാരണം അതിന്റെ സ്വതന്ത്ര ഇടം പ്രശ്നക്കാരനായ കക്ഷിയാണ് അതിനാൽ പ്രശ്നക്കാരായ ആളുകളെ നമ്മൾ എന്തുചെയ്യും നമ്മൾ അവ കൃത്യമായി പരിശോധിക്കും അതിനാൽ നമ്മൾ സമവാക്യം 6 ഉപയോഗിക്കുന്നില്ല കാരണം അത് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ലാത്തതിനാൽ സമവാക്യം 6 അവഗണിക്കാം അതിനാൽ ഇപ്പോൾ നമുക്ക് സമവാക്യം 5 ൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാം കൂടാതെ സമവാക്യം 5 അല്ലെങ്കിൽ 6 പരിഗണിക്കാതെ തന്നെ സർഫസ് ഇന്റഗ്രൽ മൊഡ്യൂളിൽ നമ്മൾ ചെയ്ത മറ്റൊരു കണക്കുകൂട്ടൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതാണ് ഇത് ചില സ്ഥിരാങ്കങ്ങളുള്ള ടാൻജെൻഷ്യൽ H ഫീൽഡിന് ആനുപാതികമായിരുന്നു അത് ഇവിടെയുള്ള സ്ഥിരാങ്കങ്ങൾ ശരിയായിരുന്നു അതിനാൽ ഈ പ്രശ്നം വേരിയബിളുകൾ ഈ സ്കെയിലറുകളാണ് എന്നതിനാൽ എഴുതിയിരിക്കുന്നു ക്ഷമിക്കണം ഇതാണ് വേരിയബിളുകൾ എനിക്ക് ഇത് കൂടാതെ ആയി മാറ്റിസ്ഥാപിക്കാൻ കഴിയും ഞാൻ പരിഹരിച്ചപ്പോൾ എത്രയെന്ന് ഞാൻ ഉദാഹരണമായി സമവാക്യം 5 എടുക്കുക ഈ സമവാക്യം പരിഹരിക്കാൻ ഞാൻ ആദ്യം ചെയ്യേണ്ട സമീപനം എന്തായിരിക്കും എന്റെ വേരിയബിളുകൾക്കായി കൂടാതെ ആയി ഞാൻ എന്ത് അടിസ്ഥാനം തിരഞ്ഞെടുക്കും അത് പരിഹരിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു പൾസ് അടിസ്ഥാനം അപ്പോൾ പൾസ് അടിസ്ഥാനമാണോ നമ്മൾ ഉപയോഗിച്ചത് കൃത്യം അതെ അതാണ് നല്ലത് നിങ്ങൾ ഒരു പൾസ് അടിസ്ഥാനം ഉപയോഗിക്കുകയാണെങ്കിൽ എന്റെ കൂടാതെ നമ്മൾ അതിർത്തിയുടെ ഓരോ വിവേചനാധികാരത്തിലും അവ ഒരു പൾസ് അടിസ്ഥാനത്തിൽ വികസിപ്പിക്കുകയാണ് അത് സ്ഥിരവും ചില ഗുണകങ്ങൾ ഉപയോഗിച്ച് ഞാൻ നിർണ്ണയിക്കുന്നതുമായ നിരീക്ഷണം നമ്മൾ ഇവിടെ ഉപയോഗിക്കും കൂടാതെ മറ്റെല്ലായിടത്തും പൂജ്യം അടിസ്ഥാനമാണ് നിങ്ങൾ FEM അടിസ്ഥാനമാക്കിയുള്ള ഫംഗ്ഷനുകൾ നോക്കുകയാണെങ്കിൽ അവയും ഒരു ബൌണ്ടറി എഡ്ജസ് പോലെ കാണപ്പെടും അതിന് അതിർത്തിയിൽ ഒരു സ്ഥിരാങ്കമുണ്ട് കൂടാതെ മറ്റെല്ലായിടത്തും 0 ഉണ്ട് അതിനാൽ ആ സാമ്യം നമ്മൾ ചൂഷണം ചെയ്യും അതിനാൽ ഇപ്പോൾ ഈ അബ്സോർബിങ് ബൌണ്ടറി കണ്ടിഷനിൽ നിന്ന് മുക്തി നേടുക എന്നതാണ് പ്രധാന ഭാഗം അതിനാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഘട്ടം 3 നമ്മൾ ലൈൻ വരയ്ക്കുന്നത് എവിടെയാണോ ഇവിടെയാണ് നമ്മൾ ലൈൻ വരക്കുന്നത് അപ്പോൾ ഏത് ടേമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ ടേമാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ഈ സമവാക്യത്തിൽ H മാത്രമേ അടങ്ങിയിട്ടുള്ളൂ എന്നത് ശ്രദ്ധിക്കുക അവിടെ E ഇല്ല പക്ഷേ എനിക്ക് അതിനെ എങ്ങനെയെങ്കിലും ബൌണ്ടറി ഇന്റഗ്രൽ സമവാക്യങ്ങളുമായി ബന്ധിപ്പിക്കണമെങ്കിൽ എനിക്ക് എങ്ങിനെയെങ്കിലും അവിടെയും E ലഭിക്കണം അതിനാൽ ഇവിടെ എന്തുചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഊഹങ്ങൾ എന്താണ് എനിക്ക് എങ്ങനെയെങ്കിലും വലതുവശത്ത് നിന്ന് ഒരു വൈദ്യുത മണ്ഡലം ലഭിക്കുമോ H ചുരുൾ നിങ്ങളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത് വൈദ്യുത മണ്ഡലം തന്നെ അതിനാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതാണ് അത് ഏകദേശമാണോ അതോ കൃത്യമാണോ കൃത്യം ശരിയല്ലേ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല അതിനാൽ അത് സംഭവിക്കുന്നു എനിക്ക് ഇത് എടുക്കാം അതിനാൽ നമുക്ക് ഇവിടെ ഒരു സാമ്പിൾ കേസ് എടുക്കാം ഇതാണ് എന്റെ ഒബ്ജക്റ്റ് ബൌണ്ടറി ഞാൻ അതിലെ ഒരു ത്രികോണത്തിലേക്ക് നോക്കുകയാണ് അത് വളരെ വളഞ്ഞതായിരിക്കാം നിങ്ങൾക്ക് ഇത് കുറച്ച് മികച്ചതാക്കാം ഇത് അതിർത്തിയിലെ ത്രികോണമാണ് എന്റെ t തൊപ്പി എന്റെ ടാൻജെൻഷ്യൽ വെക്ടറാണെന്ന് നമുക്ക് പറയാം അത് അതിർത്തിയിലൂടെ പോകുന്നു പിന്നെ ഏത് വഴിയാണ് എന്റേത് ഇപ്പോൾ ബോർഡിൽ നിന്ന് പുറത്തുവന്ന് ഈ ടേo അതിർത്തിയിൽ മാത്രമേ പ്രത്യക്ഷപ്പെടുന്നുള്ളൂവെന്ന് ഓർക്കുക എനിക്ക് ഉള്ളിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല അപ്പോൾ അതിർത്തിയിൽ T യുടെ മൂല്യം എന്താണ് അതിരിലെ വളരെ ലളിതമായ ഒരു ചോദ്യമാണ് ക്യാപിറ്റൽ T യുടെ മൂല്യം എന്താണ് അതെ അതൊരു തന്ത്രപരമായ ചോദ്യമായിരുന്നു വിദ്യാർത്ഥി 1 1 നിർവചനം അനുസരിച്ച് ഞാൻ ഇത് നിർമ്മിച്ചത് ഇങ്ങനെയാണ് ഈ ക്യാപിറ്റൽ T എന്നത് ഒന്ന് ബൌണ്ടറി 1 ൽ കൂടി അല്ലെങ്കിൽ മൈനസ് 1 ബൌണ്ടറിയുടെ ക്രമീകരണത്തിനനുസരിച്ച് കൂടാതെ t യുടെ തിരഞ്ഞെടുപ്പ് അതിനാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ കരുതുന്നു ഈ എക്സ്പ്രെഷൻ ലളിതമാക്കാൻ കഴിയുമോ അതിനാൽ എനിക്ക് ദിശയിൽ മാഗ്നിറ്റ്യൂഡ് ഒന്നിന്റെ ഒരു വെക്റ്റർ ഉണ്ട് അതിനാൽ വലത് കൈ ടേം റൂൾ നിങ്ങൾക്ക് നൽകുന്നു വിദ്യാർത്ഥി 1 1 ശരി അതിനാൽ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് അതാണ് അതിനാൽ യഥാർത്ഥത്തിൽ ഞാൻ ഉദ്യേശിച്ചത് ഇതിന്റെ ആശയപരമായ ഭാഗം നമ്മൾ ഏതാണ്ട് പൂർത്തിയാക്കിക്കഴിഞ്ഞുവെന്നാണ് ഞാൻ ചെയ്തത് എന്റെ യഥാർത്ഥ സമവാക്യമാണ് ഇവിടെ സമവാക്യം 3 ആണ് ഇവിടെ ഇരുവശത്തും H ഉണ്ടായിരുന്നു തുടർന്ന് H ന്റെ വൈദ്യത മണ്ഡലവുമായി ബന്ധപ്പെട്ട ചുരുൾ തിരിച്ചറിയാൻ ഞാൻ ഇവിടെ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ Maxwell's equations ഉപയോഗിക്കുന്നു ആ വൈദ്യുത മണ്ഡലം മാറ്റിസ്ഥാപിക്കുക കൂടാതെ ഇവയെല്ലാം നെ വിലയിരുത്താൻ പോകുന്നു എന്തുകൊണ്ട് എവിടെനിന്നാണ് മൈനസ് ചിഹ്നം വന്നത് ശരി T ചൂണ്ടിക്കാണിക്കുന്നത് ലൂടെ ആണെങ്കിൽ ആശ്രയിക്കാനുള്ള സാധ്യത ഉണ്ട് അതെ എന്തിനെയാണ് ആശ്രയിക്കുന്നത് എപ്പോഴാണ് എന്താണ് t യുടെ ദിശ നിർണ്ണയിക്കുന്നത് നോഡ് കൺവെൻഷൻ CAD സോഫ്റ്റ്വെയർ ചെയ്യുന്ന നോഡുകളുടെ നമ്പറിംഗ് ശരിയാണ് അതിനാൽ ചിലപ്പോൾ ഇത് ഇങ്ങനെയായിരിക്കാം ചിലപ്പോൾ അങ്ങനെയായിരിക്കാം നമ്മൾ സ്ഥിരത പുലർത്തണം അതിനാൽ എനിക്ക് എന്റെ കാലാവധി ലഭിക്കുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ ഞാൻ ഈ പദപ്രയോഗം ഇവിടെ എടുക്കുകയാണെങ്കിൽ ഇത് മാത്രമല്ല ഇത് ശരിയായി സമന്വയിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ dl ൽ ഈ വ്യക്തിയെ സംയോജിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് എന്തായിരിക്കും എന്റെ പൾസ് അടിസ്ഥാനത്തിൽ വികസിക്കുമെന്ന് ഞാൻ അനുമാനിക്കുന്നു അതായത് ആ അരികിൽ സ്ഥിരമാണ് അപ്പോൾ ഈ ഇന്റെഗ്രേലിൽ എന്താണ് അതിജീവിക്കുക 1 അരികിന്റെ നീളം അതിനാൽ ഇത് ശരിയാകും അതിനാൽ ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ അർത്ഥമാക്കുന്നത് അബ്സോർബിങ് അതിർത്തി അവസ്ഥയെ ഒരു അതിർത്തി ഇന്റഗ്രൽ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള താക്കോൽ ഇതാണ് ഇപ്പോൾ ഞാൻ ചെയ്തത് ഇതാണ് എന്റെ ഈ FEM സമവാക്യം ഇവിടെ സമവാക്യം 3 ആണ് FEM ന്റെ ഇടത് വശമാണ് എനിക്ക് ഒരു സ്പാർസ് മാട്രിക്സ് ഉറപ്പ് നൽകാൻ പോകുന്നത് വലതുവശത്തുള്ള പദം ഞാൻ ഇപ്പോൾ ടേമുകളുടെ അടിസ്ഥാനത്തിൽ മാറ്റിസ്ഥാപിക്കുന്നു എനിക്ക് ഇത് നേരത്തെ ചെയ്യാമായിരുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം അതിനാൽ ഞാൻ ഇതുവരെ ബൌണ്ടറി ഇന്റഗ്രൽ രീതികൾ ഉപയോഗിച്ചിട്ടില്ല ഇവിടെയുള്ള ഈ പദം ഇ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാമെന്ന മാക്സ്വെല്ലിന്റെ സമവാക്യം Maxwell's equation തിരിച്ചറിയുക മാത്രമാണ് ഞാൻ ചെയ്തത് അതിനാൽ എന്തുകൊണ്ടാണ് ഞാൻ ഇത് നേരത്തെ ചെയ്യാതിരുന്നത് ഇല്ല ഞാൻ അർത്ഥമാക്കുന്നത് മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങൾ Maxwell's equations ഇത് എങ്ങനെ മാറ്റിസ്ഥാപിക്കാമെന്നാണ് അർത്ഥമാക്കുന്നത് ഒരു സമീപനവും പരിഗണിക്കാതെ തന്നെ ഇത് ഒരേപോലെ ശരിയാക്കുന്നു ഇത് ചെയ്യുന്നതിലൂടെ ഇവിടെ എന്താണ് പ്രശ്നം അജ്ഞാതമായ മറ്റൊരു കാര്യം ഞാൻ ചേർക്കുന്നു കൂടാതെ അറിയുന്ന ഒന്നും അവിടെയില്ല ഇൻസിഡന്റ് ഫീൽഡ് വിവരങ്ങൾ ഒന്നും അതിലേക്ക് വരുന്നില്ല അതിനാൽ സഹായകരമല്ലാത്ത ശരിയായ സമവാക്യങ്ങളുടെ ഒരു കൂട്ടം ഞാൻ നൽകും അതിനാൽ എന്താണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ നല്കാൻ പോകുന്നത് അത് ബൌണ്ടറി ഇന്റഗ്രൽ ഭാഗം ആയിരിക്കും ഇവിടെ അതിനാൽ ഇത് ഒരു ഘട്ടം 1 ആണ് ആദ്യം നമ്മൾ ബൌണ്ടറി കണ്ടിഷൻറെ ടേo മാറ്റുന്നു എനിക്ക് ഇവിടെ ലഭിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മൾ കൂടുതൽ പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ സമവാക്യം 5 എടുത്താൽ എനിക്ക് എത്ര വേരിയബിളുകളിൽ എത്ര സമവാക്യങ്ങൾ ലഭിക്കും ഞാൻ സമവാക്യം 5 മാത്രം എടുക്കുകയാണെങ്കിൽ അതിർത്തിയിൽ എനിക്ക് എത്ര ബൌണ്ടറികളുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു ബൌണ്ടറിയിലെ m അരികുകൾ എത്ര അജ്ഞാതമായത് ഉണ്ട് mm അവിടെ ഇപ്പോൾ ഓരോ ബൌണ്ടറി എഡ്ജിനുo ഒരു അജ്ഞാതവും അജ്ഞാതവുമായ ഒരു അജ്ഞാതമായതും ഉണ്ട് അതിനാൽ ബൌണ്ടറിയിലെ എത്ര പോയിന്റുകളിൽ നിങ്ങൾക്ക് 2 m അജ്ഞാതങ്ങളുണ്ട് നിങ്ങൾ സമവാക്യം 5 നടപ്പിലാക്കുന്നുണ്ടോ ഓരോ എഡ്ജിന്റെയും മധ്യഭാഗത്ത് അതാണ് നമ്മൾ ചെയ്തത് അതെ അതിനാൽ n എന്നത് ഇന്റീരിയർ അരികുകളുടെ എണ്ണമാണ് അതിനാൽ നിങ്ങൾക്ക് സ്കീമിന്റെ ത്രികോണാകൃതിയാക്കൽ ഉണ്ട് H ഒന്നുകിൽ ഇന്റീരിയറിലോ ബൌണ്ടറിയിലോ ആകാം അതിനാൽ n എന്നത് ഇന്റീരിയർ m ആണ് അതിർത്തി അതിനാൽ എന്റെ മാട്രിക്സ് വലുപ്പം അതെ കൃത്യമായി അതെ ശരി ഇവിടെ 2 m അജ്ഞാതമായത് എന്നാൽ ഞാൻ സമവാക്യം 5 മാത്രം എടുത്താൽ എനിക്ക് എത്ര സമവാക്യങ്ങൾ ലഭിക്കും m സമവാക്യങ്ങൾ ഓരോന്നിന്റെയും മധ്യഭാഗത്ത് m അരികുകൾ ഉള്ളതിനാൽ ഞാൻ ഈ വശം നടപ്പിലാക്കുന്നു അതിനാൽ എനിക്ക് m സമവാക്യങ്ങളുണ്ട് അതിനാലാണ് ഞാൻ 5 എന്ന സമവാക്യം ഉപയോഗിച്ചാൽ ഇത് ഒറ്റയ്ക്കല്ല എനിക്ക് ഇത് പരിഹരിക്കാൻ കഴിയില്ല 6 ൽ നിന്ന് മറ്റൊരു m സമവാക്യം ചേർത്താൽ എനിക്ക് ഒരു സമവാക്യ സംവിധാനം പരിഹരിക്കാൻ കഴിയും പക്ഷേ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുന്നു അതിനാൽ ഇപ്പോൾ ഇത് ഒരുമിച്ച് ചേർക്കാനുള്ള നല്ല നിലയിലാണ് നമ്മൾ